എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം 4500 225 വോൾട്ട് ഉള്ള ഒരു സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമറിന് 50 Hz ഫ്രീക്വൻസി ഉണ്ട് അതിനാൽ f 50 Hz ഈ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിന് ഏകദേശം 15 വോൾട്ട് ഇ എം എഫ് പെർ ടേൺ ഉണ്ട് അത് പരമാവധി ഫ്ളക്സായ 1 4 Wb m2 ലാണ് പ്രവർത്തിക്കുന്നത് പ്രൈമറി ടേണുകളുടെയും സെക്കണ്ടറി ടേണുകളുടെയും എണ്ണം കണക്കാക്കുക കോറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണക്കാക്കുക ഈ രണ്ടുമാണ് നമുക്ക് നിർണ്ണയിക്കേണ്ടത് അപ്പോൾ ഇ എം എഫ് പെർ ടേൺ E1 N1 E2 N2 15 അത് ഇവിടെ നൽകിയിട്ടുണ്ട് അത് കൊണ്ട് N1 E1 15 4500 15 അത് നമുക്ക് 300 എന്ന് ലഭിക്കും കാരണം പ്രൈമറി വശത്ത് 4500 വോൾട്ടും സെക്കണ്ടറി സൈഡിൽ 225 വോൾട്ട് ആണ് അതിനാൽ N2 225 15 15 ആണ് N2 15 ഇനി നമുക്കറിയാം E1 4 44 ∅m f N1 ആണ് അതിനാൽ ∅m ഇവിടെ E1 മൂല്യവും കൂടെ ഈ മൂല്യങ്ങളും ചേർക്കുക ഇവിടെ E1 4500 ആണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 0 0676 Wb ആണ് ഇനി A നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ∅m A ഫ്ളക്സ് ഡെൻസിറ്റി ആണ് അപ്പോൾ A ∅m Bmax ഇവിടെ ∅m എന്ന പരമാവധി ഫ്ളക്സ് ഡെൻസിറ്റി 1 4 Wb m2 എന്നത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് അടിസ്ഥാനപരമായി 0 0483 m 2 ആവും അതായത് 483 cm 2 ഇനി ലോഡുള്ള ട്രാൻസ്ഫോർമർ ആണ് ഇവിടെ ഈ ട്രാൻസ്ഫോർമർ ലോഡുള്ളതാണ് അതിനാൽ ആദ്യത്തേതിൽ നമ്മൾ ഈ സർക്യൂട്ട് വരക്കും ഇതിൽ ഇതാണ് പ്രൈമറി വശം ഇത് സെക്കണ്ടറി വശം ലോഡ് കണക്റ്റഡാണ് ഇനി നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട് ലൂപ്പിൽ നിന്ന് R1 ഉം X1 ഉം അതായത് റെസിസ്റ്റൻസും വൈൻഡിങ്ങിൻറെ റിയാക്റ്റൻസും ഈ രണ്ട് റെസിസ്റ്റൻസുകളും നമ്മൾ ഇവിടെ ചേർക്കുന്നു ഇതാണ് E1 ഉം E2 ഉം ഈ E2 പരിഗണിക്കേണ്ടതില്ല E1 അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ V1 E1 ആയിരിക്കും പക്ഷെ ഇത് ലോഡ് ചെയ്യുമ്പോൾ ഇത് R1 X1 ആണ് ഈ ആരോ കാണിക്കുന്നത് ഇത് പോസിറ്റീവാണെന്നാണ് സമാനമായി ഇവിടെ ഒരു ലോഡുണ്ട് Z L എന്നതാണ് ലോഡ് ലോഡിന് കുറുകെയുള്ള ബുള്ളറ്റ് വോൾട്ടേജ് V2 ആണ് ഇത് R2 ഉം ഇത് X2 ഉം ആണ് ഇത് സെക്കണ്ടറി വശത്തെ റെസിസ്റ്റൻസും റിയാക്റ്റൻസുമാണ് മുമ്പ് നമ്മൾ നോ ലോഡ് കേസിൽ സെക്കൻഡറിയിൽ കറണ്ട് ഒഴുകുന്നില്ലെന്ന് കണ്ടിരുന്നു പ്രൈമറി വശത്തു മാത്രമായിരുന്നു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടായിരുന്നത് ഈ നോ ലോഡ് കറണ്ട് I0 വളരെ ചെറുതാണ് അതിനെ എക്സൈറ്റിങ് കറണ്ട് എന്നാണ് വിളിക്കുന്നത് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് കോർ ലോസിന് ഉത്തരവാദിത്തപ്പെട്ടതാണ് മറ്റൊന്ന് മാഗ്നട്ടൈസിംഗ് കംപോണന്റ് ആണ് അത് പവർ ഉൽപാദിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടതാണ് ഇനി ഈ കേസിൽ ഇത് ലോഡിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് N1 ടേണും ഇത് N2 ടേണുമാണ് ഈ വോൾട്ടേജ് E1 ഉം ഈ വോൾട്ടേജ് E2 ഉം ആണ് ഇത് വെച്ച് ഈ വോൾട്ടേജിൽ ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണെന്ന് പറയാനാവുന്നതാണ് ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ടിന്റെ ദിശ ഇതായിട്ടാണ് എടുത്തിട്ടുള്ളത് അതിനാൽ കറണ്ട് ഒഴുകുന്ന ദിശയിൽ ഒരു കണ്ടക്ടർ പിടിക്കുകയാണെങ്കിൽ ഈ വശത്തെ ഫ്ളക്സ് ∅ ആയിരിക്കും അതിനാൽ ലോഡ് കണക്റ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഒഴുകുന്നത് ഇത് പോലെയായിരിക്കും ഇനി കണ്ടക്ടർ വീണ്ടും കറണ്ടിന്റെ ദിശയിൽ പിടിക്കുകയാണെങ്കിൽ ഇത് ഈ വഴിയായിരിക്കും അതിനർത്ഥം ഇഫെക്റ്റീവ് ഫ്ളക്സ് കുറയുകയായിരിക്കും അപ്പോൾ എന്താണ് സംഭവിക്കുകയെന്നാൽ ഇതിൽ നിന്നുള്ള എംഎംഎഫ് ഉൽപാതിപ്പിച്ചത് N1 I1 ഉം ഇതിൽ നിന്നുള്ളത് N2 I2 ഉം ആയിരിക്കും യഥാർത്ഥത്തിൽ ഇത് N1 I1 N2 I2 എന്നായിരിക്കും എൻ്റെ അടുത്ത് ഈ ട്രാൻസ്ഫോർമർ ഉണ്ടെന്ന് കരുതുക ഇതാണ് ട്രാൻസ്ഫോർമറിന്റെ ചിഹ്നം ഇതാണ് കറണ്ട് I1 ഇത് N1 ആണ് ഇതാണ് അതിന്റെ സെക്കണ്ടറി വശം ഇവിടെ കറണ്ട് I2 വും ടേൺ N2 ഉം ആണ് കറണ്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിനായി ഒരു ഡോട്ട് ചേർക്കുക അപ്പോൾ ഇവിടുത്തെ എംഎംഎഫ് I1 N1 N2 I2 R ∅ ആണ് ഇത് നമ്മൾ എങ്ങനെ ചെയ്തുവെന്നാൽ ഇവിടെ ഈ രണ്ട് കറണ്ടും ഡോട്ടിലേക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനനുസരിച്ച് ഇതിൽ റൈറ്റ് ഹാൻഡ് റൂൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവ രണ്ടും കൂട്ടണമെന്ന് നമ്മൾ കണ്ടെത്തും പക്ഷെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ റിയാക്റ്റൻസ് R 0 ആണ് അങ്ങനെയാവുമ്പോൾ ഇതിനർത്ഥം I1 N1 I2 N2 0 ആണ് അതിനാൽ I1 N1 N2 I2 എന്നാവും അതിനർത്ഥം I1 ഉം I2 ഉം ആൻറി ഫേസ് ആയിരിക്കും N1 N2 ടേണുകൾ കോൺസ്റ്റന്റാണ് I1 ഉം I2 ഉം ആൻറി ഫേസ് ആയിരിക്കും അപ്പോൾ ഇതാണ് ഒരു മാർഗ്ഗം ഇനി മറ്റൊരു മാർഗ്ഗത്തിൽ നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ചേർക്കുകയാണെങ്കിൽ അത്പോലെ ഇവിടെയും ഒരു ഡോട്ട് ചേർക്കുകയാണെങ്കിൽ എന്നിട്ട് ഈ കറണ്ടിന്റെ ദിശ ഇത് പോലെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് N1 I1 N2 I2 എന്നാണ് അതിനർത്ഥം അവിടെയൊരു ആന്റി ഫേസ് ഉണ്ട് അത് കൊണ്ടാണ് കറണ്ടിന്റെ ദിശ ഈ വഴി ആയത് അതായത് ലോഡിലേക്ക് പോകുന്ന രൂപത്തിൽ ആയത് അപ്പോൾ ഇതാണ് ലോഡിലുള്ള ഒരു ട്രാൻസ്ഫോർമർ ഇനി ഈ ഇക്വലന്റ് സർക്യൂട്ടിൽ R1 ഉം X1 ഉം ആണ് പ്രൈമറി വശത്തെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും അത് പോലെ ഇതാണ് Ic ഉം Im ഉം അതായത് പ്രൈമറി വശത്ത് നമ്മൾ ആൾട്ടർനേറ്റിംഗ് സപ്ലൈ ആണ് നൽകുന്നത് Ic കറണ്ടിൽ കോർ ലോസ് ഭാഗമുണ്ട് അതിനെ ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് അവതരിപ്പിക്കാം സമാനമായി മാഗ്നടൈസിങ് കറണ്ട് ആയ Im ആണ് നോ ലോഡ് ഫ്ളക്സ് ഉൽപാദിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത് അതിനെ ഒരു ഇൻഡക്റ്റൻസ് ഉപയോഗിച്ച് അവതരിപ്പിക്കാം അത് പോലെ ഇത് കറണ്ട് I0 ആണ് അതിനർത്ഥം ഇവ രണ്ടും പാരലൽ സർക്യൂട്ടുകളാണ് അതിനാൽ I0 Ic j Im ഇനി ഇതാണ് സെക്കണ്ടറി വശത്തെ R2 ഉം X2 ഉം ഇതാണ് ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് ഇത് ഫെറോമാഗ്നറ്റിക് മെറ്റിരിയലും ഇത് പ്രൈമറി വശവും ഇത് സെക്കണ്ടറി വശവുമാണ് അപ്പോൾ ഇതാണ് ലോഡ് ലോഡിലുള്ള ഈ വോൾട്ടേജ് V2 ആണ് ഈ ആരോ സൂചിപ്പിക്കുന്നത് ഇത് പൊളാരിറ്റി ഉം ഇത് ഉം ആണെന്നാണ് കൂടാതെ ഇത് N1 ടേണുകളും ഇത് N2 ടേണുകളുമാണ് ഇനി ഇവിടെ ഈ സ്രോതസ്സിൽ നിന്നുള്ള കറണ്ട് I1 ആണ് പക്ഷെ കറണ്ടിന്റെ ഒരു ഭാഗം I0 ഇവിടേക്ക് പോകുന്നുണ്ട് I0 Ic j Im ഇവിടെ കറണ്ട് I2 ആണ് I1 I0 I2 എന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിക്കുക എന്നാൽ ഇതാണ് പ്രൈമറി വൈൻഡിങ്ങിലൂടെ പോകുന്ന കറണ്ട് നേരത്തെ ഞാൻ I1 കണ്ടിരുന്നു കാരണം ഒരു ഐഡിയൽ ട്രാന്സ്ഫോര്മറിൽ ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കുകയില്ല ഇനി ഈ കറണ്ട് I2 നോക്കുകയാണെങ്കിൽ ഇത് I2 N1 ആണ് ഇത് I2 N2 വും ഇനി ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ I2 N2 N1I2 പക്ഷെ ഇത് വരേണ്ടിയിരുന്നത് I2 N1 I2 N2 എന്നായിരുന്നു I2 ഉം I2 ഉം ആൻറി ഫേസിലാണ് ഈ I0 നിസ്സാരമാണ് അത് കൊണ്ടാണ് ഞാൻ N1 I1 ഐഡിയൽ ട്രാൻസ്ഫോര്മറിൽ നിന്നാണെന്ന് എഴുതിയത് അതിനർത്ഥം പ്രൈമറി വശത്തെ എംഎംഎഫ് സെക്കണ്ടറി വശത്തെ എം എം എഫിന് തുല്യമായിരിക്കണം അതിനാൽ നമ്മൾ ഫേസർ ഡയഗ്രം വരക്കുമ്പോൾ ഈ I2 ഉം I2 ഉം ആൻറി ഫേസിലായിരിക്കും അതായത് ഫേസ് ഷിഫ്റ്റിൽ 180 ഡിഗ്രി വ്യത്യാസമുണ്ടാകും അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം E1 N1 d∅ dt നമ്മൾ E1 ഇത്രയാണെന്ന് ഇതിനകം മാഗ്നറ്റിക് സർക്യൂട്ടിലും മറ്റുമായി കണ്ടിട്ടുണ്ട് അതിനാൽ ഇതാണ് E1 ഇത് E2 ആണ് ഇനി ഫേസർ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇതിലൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഈ കാണുന്നതും ഈ കാണുന്നതും ഒന്നുമല്ല ഞാൻ അത് വെട്ടിയതാണ് അപ്പോൾ ഈ കേസിൽ V1 E1 സന്തുലിതാവസ്ഥ നഷ്ടപെട്ടിട്ടുണ്ട് ഇവിടെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ V1 E1 ആണ് അത് പോലെ ഇത് I1 R1 ആണ് ഇത് 90 ഡിഗ്രി ആണ് കാരണം ഇത് റിയാക്റ്റൻസ് ആണ് ഇനി നിങ്ങൾ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മുമ്പ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോർമറിന് V1 E1 എന്ന് എടുത്തിരുന്നു പക്ഷെ ഇവിടെ ട്രാൻസ്ഫോർമർ ലോഡ് ചെയ്തത് കൊണ്ട് സെക്കന്ററി വശം ലോഡ് ചെയ്തത് കൊണ്ട് ഇവിടെ കിട്ടുന്നത് I1 R1 j I1 X1 ആയിരിക്കും അതിനാൽ V1 E1 I1 R1 j I1 X1 അത് കൊണ്ടാണ് ഈ ഫേസർ ഡയഗ്രം V1 E1 I1 R1 j I1 X1 ആവുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ I1 I2 I0 അപ്പോൾ ഇത് നോ ലോഡ് കറണ്ട് ആയ I0 യും ഇത് I2 ഉം ആണ് ഇത് I1 ആണ് പക്ഷെ I2ഉം സെക്കണ്ടറി കറണ്ടായ I2 ഉം ആൻറി ഫേസായിരിക്കും അപ്പോൾ അത് കൊണ്ടാണ് ഇത് I2 ആവുന്നത് അത് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എന്റെ I2 എന്ന് കരുതുക എങ്കിൽ ഇതായിരിക്കും I2 അവ ആൻറി ഫേസായിരിക്കും അപ്പോൾ അത് കൊണ്ടാണ് ഇത് I2 ഉം ഇത് I2 ഉം ആവുന്നത് I2 ഇവിടെ വരച്ചിട്ടുണ്ട് ഈ ഫേസർ ആണ് I2 അതിനാൽ സെക്കണ്ടറി വശത്ത് E2 V2 I2 R2 j I2 ആയിരിക്കും ഈ സർക്യൂട്ടിൽ kvl പ്രയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് E2 ഈ സർക്യൂട്ടിലും നോക്കുകയാണെങ്കിൽ ഇതാണ് E1 ഇതാണ് E2 ഇത് ഉം ഉം ആണ് ഇനി ഈ സർക്യൂട്ടിൽ kvl പ്രയോഗിക്കുകയാണെങ്കിൽ E2 I2 R2 j I2 X2 V2 എന്നതാണ് അതിനാൽ ഇതിൽ kvl പ്രയോഗിക്കുകയാണെങ്കിൽ E2 V2 I2 R2 ഉം ഈ I2 X2 ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ റിസൾട്ടന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് I2 Z2 ആയിരിക്കും സമാനമായി ഈ ഭാഗവും I2 I1 Z1 ആയിരിക്കും ഈ കറണ്ട് I1 ഞാൻ പറഞ്ഞത് പോലെ I0 I2 ആയിരിക്കും കൂടാതെ V1 ൻറെയും I1 ന്റെയും ഇടയിലെ ആംഗിൾ ∅1 ആയിരിക്കും അത് പോലെ I2 വും V2 വും തമ്മിലുള്ള ആംഗിൾ ∅2 ആയിരിക്കും ഇവിടെ ഇത് ∅2 എന്ന് കാണിച്ചിട്ടുണ്ട് അതിനാൽ I2 വും I2 ഉം ആൻറി ഫേസ് ആണ് ഇത് മുമ്പത്തേത് പോലെ റഫറൻസ് ഫേസർ ആയ ഫ്ളക്സ് ∅ ആണ് അപ്പോൾ ഇതാണ് ലോഡിലുള്ള ട്രാൻസ്ഫോർമറിന്റെ ഫേസർ ഡയഗ്രം അപ്പോൾ ഈ ഫേസർ ഡയഗ്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇവിടെ ഒരു എഴുത്തുണ്ട് ട്രാൻസ്ഫോർമർ ലോഡുചെയ്യുമ്പോൾ സെക്കണ്ടറി വൈൻഡിംഗിൽ കറണ്ട് I2 ഒഴുകും സെക്കണ്ടറി എംഎംഎഫ് I2 N2 ഒരു സെക്കണ്ടറി ഫ്ലക്സ് സജ്ജമാക്കുന്നു അത് പ്രൈമറി എംഎംഎഫ് ഉൽപാദിപ്പിക്കുന്ന ഫ്ലക്സ് കുറയ്ക്കുന്നു അതിനർത്ഥം ഇതാണ് പ്രൈമറി എംഎംഎഫ് I2 N1 ഇത് സെക്കണ്ടറി എംഎംഎഫ് I2 N2 ആണ് ഇതിൽ ഹാൻഡ് റൂൾ പ്രയോഗിച്ചാൽ നമുക്ക് ഫ്ളക്സിന്റെ ദിശ കാണാൻ കഴിയും അത് ഇഫക്ടീവ് ഫ്ളക്സ് കുറക്കാൻ ശ്രമിക്കും അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഹാൻഡ് റൂൾ പ്രയോഗിക്കുക കറണ്ട് ഒഴുകുന്ന ദിശയിൽ കണ്ടക്ടർ പിടിക്കുക അപ്പോൾ നിങ്ങളുടെ തള്ള വിരലായിരിക്കും ഫ്ളക്സിന്റെ ദിശ സൂചിപ്പിക്കുന്നത് തൽഫലമായി E1 കുറയുകയും V1 നും E1 നും ഇടയിലുള്ള സന്തുലിതാവസ്ഥ നിലനിൽക്കുകയുമില്ല അതിനാൽ ലോഡു ചെയ്യുമ്പോൾ സെക്കണ്ടറി എംഎംഎഫിന്റെ സാന്നിദ്ധ്യം പ്രൈമറി എംഎംഎഫിന്റെ ഉൽപാദനം തുല്യ അളവിൽ പക്ഷേ വിപരീത ദിശയിൽ ആവശ്യമാക്കും അതായത് N1 I2 N2 I2 നമ്മൾ I0 പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ I2 I1 എന്നാവും അടുത്തത് ട്രാൻസ്ഫോർമറിന്റെ നിർമ്മാണത്തിന്റെ ചെറിയ ഭാഗമാണ് ഇത് ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഇതൊരു കോർ ടൈപ്പ് ട്രാൻസ്ഫോർമർ ആണ് ഇത് അതിന്റെ ലോ വോൾട്ടേജ് വൈൻഡിങ്ങും അതിനു മുകളിലുള്ളത് ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങുമാണ് ഇത് ലാമിനേറ്റഡ് കോറാണ് ഇതാണ് ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോർമർ അത് പോലെ ഇവിടെയുള്ളത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോർമർ ആണ് അതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ലോ വോൾട്ടേജ് വൈൻഡിങ്ങും ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങും കാണാം അപ്പോൾ ഇതാണ് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള നിർമ്മാണങ്ങൾ നിങ്ങൾ ഏതെങ്കിലും പുസ്തകം വായിച്ച് കോർ ടൈപ്പും ഷെൽ ടൈപ്പും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക ഞാൻ ഈ ഭാഗം വിടുകയാണ് ലോ വോൾട്ടേജ് വൈൻഡിങ്ങുകളും ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങുകളും ലീക്കേജ് ഫ്ളക്സ് കുറയ്ക്കുന്നതിനായി ഇവിടെ കാണിച്ചത് പോലെ വൌണ്ട് ചെയ്യുന്നു ഇതേ പോലെ നിരവധി എംവിഎയിൽ റേറ്റുചെയ്തതും 50 ഹെർട്സ് അല്ലെങ്കിൽ 60 ഹെർട്സ് ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നതുമായ പവർ ട്രാൻസ്ഫോർമറിനായി പവർ ട്രാൻസ്ഫോർമററിൽ യുഎസ്എ യിൽ ഇത് 60 ഹെർട്സ് ആണ് ജപ്പാനിൽ 50 ഹെർട്സ് അല്ലെങ്കിൽ 60 ഹെർട്സ് ഉണ്ട് അതിൽ ഉപയോഗിക്കുന്ന പ്രധാന മെറ്റീരിയൽ സാധാരണയായി ലാമിനേറ്റ് ചെയ്ത സിലിക്കൺ സ്റ്റീൽ ആണ് ലാമിനേഷൻ എഡ്ഡി കറന്റും സിലിക്കൺ സ്റ്റീൽ ഹിസ്റ്റെറിസിസ് ലോസും മിനിമത്തിലേക്ക് കുറച്ച് നിലനിർത്തുന്നു വലിയ പവർ ട്രാൻസ്ഫോർമറുകൾ പവർ സ്റ്റേഷൻ മെയിൻ ഡിസ്ട്രിബൂഷൻ സിസ്റ്റം വ്യാവസായിക സപ്ലൈ സർക്യൂട്ട് എന്നിവയിൽ ഉപയോഗിക്കുന്നു ചെറിയ പവർ ട്രാൻസ്ഫോർമറുകൾക്ക് ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഉദാഹരണത്തിന് വെൽഡിംഗ് റക്റ്റിഫയർ സപ്ലൈസ് ഗാർഹിക ബെൽ സർക്യൂട്ടുകൾ ഇറക്കുമതി ചെയ്ത വാഷിംഗ് മെഷീനുകൾwelding and rectifier supplies domestic bell circuit imported washing machines തുടങ്ങിയവ ഇനി മറ്റൊന്ന് ഇത് വെറും പൊതു വിജ്ഞാനത്തിന് വേണ്ടി മാത്രമാണ് കുറച്ച് മില്ലി വോൾട്ട് ആമ്പിയർ മുതൽ 20 വോൾട്ട് ആമ്പിയർ വരെ റേറ്റുചെയ്തതും 15 കിലോ ഹെർട്സ് വരെ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നതുമായ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമറുകളുടെ ചെറിയ കോർ ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ഓഡിയോ ആംപ്ലിഫയർ സിസ്റ്റം ആണ് ഇനി റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമർ മെഗാഹെർട്സ് ഫ്രീക്വൻസി മേഖലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിൽ എയർ കോർ ഫെറൈറ്റ് കോർ അല്ലെങ്കിൽ ഡസ്റ്റ് കോർ ഉണ്ട് സിലിക്കൺ സ്റ്റീലിനു സമാനമായ കാന്തിക ഗുണങ്ങളുള്ളതും എന്നാൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉള്ളതുമായ ഒരു സെറാമിക് വസ്തുവാണ് ഫെറൈറ്റ് കാർബണൈൽ അയേൺ അല്ലെങ്കിൽ പെർമലോയ് ‐അതായത് നിക്കലും അയേണും‐ എന്നിവയുടെ നേർത്ത കണങ്ങളെ ഡസ്റ്റ് കോർ ഉൾക്കൊള്ളുന്നു ഇതിന്റെ ആപ്ലിക്കേഷൻ റേഡിയോയും ടെലിവിഷൻ റിസീവറുകളുമാണ് അടുത്ത ട്രാൻസ്ഫോർമർ വൈൻഡിങ് സാധാരണ ഇനാമൽ ഇൻസുലേറ്റഡ് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടുള്ളതാണ് നിങ്ങളുടെ കോളേജിലെ ഒന്നാം വർഷ ലാബിൽ നിങ്ങൾക്ക് ഓപ്പൺ ട്രാൻസ്ഫോർമറിന്റെ വൈൻഡിങ് കാണാനാവും അടുത്തത് കൂളിംഗാണ് അത് ചെറിയ ട്രാൻസ്ഫോർമറുകളിൽ വായുവും വലിയ ട്രാൻസ്ഫോർമറുകളിൽ ഓയിലുമാണ് ട്രാൻസ്ഫോർമറിലെ കൂളിംഗ് എന്നത് തന്നെ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ വലിയ ഒരു പാഠഭാഗമാണ് ഇവിടെ കുറച്ച് പൊതു ആശയങ്ങൾ നൽകുന്നതിന് വേണ്ടി മാത്രമാണ് സൂചിപ്പിച്ചത് ഇനി ഒരു ട്രാൻസ്ഫോർമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ആണ് കാരണം നമ്മൾ ട്രാൻസ്ഫോർമർ നോക്കി പക്ഷെ ഒരു ഇക്വലന്റ് ട്രാൻസ്ഫോർമർ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്കറിയില്ല അതിന് ഒരു ട്രാൻസ്ഫോർമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് അറിയണം അപ്പോൾ സാധാരണയായി എന്താണ് സംഭവിക്കുകയെന്നാൽ ഒരു ട്രാൻസ്ഫോർമർ ഇൻഡക്ടീവ് ലോഡ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ലോഡ് റെസിസ്റ്റൻസ് RL ഉം റിയാക്റ്റൻസ് XL ഉം ആണെങ്കിൽ ഇവിടെ നമ്മൾ j ചേർക്കുന്നില്ല പക്ഷെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ കോംപ്ലക്സ് ഓപ്പറേറ്ററിന് j ചേർക്കണം അത് പോലെ ലോഡിലുള്ള വോൾട്ടേജ് V2 ആണെന്നും ഇവിടെ നൽകിയിട്ടുണ്ട് ഇത് പ്രൈമറി വശത്തെ റെസിസ്റ്റൻസായ R1 X1 ആണ് V1 ആണ് സപ്ലൈ വോൾട്ടേജ് ഇതിലൂടെയുള്ള കറണ്ട് I0 ആണ് അതായത് നോ ലോഡ് കറണ്ട് ആണ് അത് പോലെ ഈ കറണ്ട് I1 I0 I2 അത് ഫേസർ തുകയാണ് ഈ വശത്തെ കറണ്ടിനെ നമുക്ക് I1 I2 എന്ന് വിളിക്കാം ഇത് R2 X2 ആണ് ഈ വൈൻഡിങ്ങിൽ ഒന്നുമില്ലാത്തത് കാരണം ഈ ഭാഗത്തെ ഐഡിയൽ ട്രാൻസ്ഫോർമർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഈ കേസിൽ E1 E2 N1 N2 ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോർമറാണ് ഈ ട്രാൻസ്ഫോർമറിൽ നിന്ന് എല്ലാം പുറത്തെടുത്തിട്ടുണ്ട് അത് ഈ രണ്ട് വൈൻഡിങ്ങുകൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് E1 ഉം E2 ഉം ആണ് അത് കൊണ്ടാണ് ഈ ഭാഗം ഡാഷ്ലൈൻ ഉപയോഗിച്ച് ഐഡിയൽ ട്രാൻസ്ഫോർമർ ആയി കാണിച്ചിട്ടുള്ളത് ഈ ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണ് അത് പോലെ ഈ കറണ്ട് I1 ഉം ഇത് I2 ഉം ആണ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ നമ്മൾ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ഉണ്ടാക്കണം അത് ഒന്നുകിൽ ഈ കാണുന്ന എല്ലാ സെക്കണ്ടറി പാരാമീറ്ററുകളും പ്രൈമറി വശത്തേക്ക് കൊണ്ട് വന്നിട്ടോ അതല്ലെങ്കിൽ എല്ലാ പ്രൈമറി പാരാമീറ്ററുകളും സെക്കൻഡറി വശത്തേക്ക് കൊണ്ട് ആണ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ സെക്കണ്ടറി പാരാമീറ്ററുകൾ പ്രൈമറി വശത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമർ ആയിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് E1 ഉം ഇത് E2 ഉം ആണ് ഇതെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് അതിനാൽ ട്രാൻസ്ഫോർമറിന്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതിന് ഇതിലെ എല്ലാം പ്രൈമറി വശത്തേക്ക് കൊണ്ട് വരേണ്ടതുണ്ട് ഇനി E2 വും E1 ഉം തമ്മിലുള്ള അളവിന്റെ അനുപാതത്തിലോ ഫേസിലോ മാറ്റം വരാത്ത രീതിയിൽ സെക്കണ്ടറി റെസിസ്റ്റൻസും റിയാക്റ്റൻസും പ്രൈമറി വശത്തേക്ക് മാറ്റുന്നതിലൂടെ ഇക്വലന്റ് സർക്യൂട്ട് ലളിതമാക്കാൻ കഴിയും അതായത് ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോർമർ ആയതിനാൽ ഇതിന്റെ E1 ലും E2 ലും മാറ്റമുണ്ടാവില്ല ഈ R2 X2 വും ഈ ലോഡും പ്രൈമറി വശത്തേക്ക് മാറുന്നതാണ് ഇനി അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രൈമറി സർക്യൂട്ടിൽ ഒരു അധിക റെസിസ്റ്റൻസ് R2 ചേർത്ത് റെസിസ്റ്റൻസ് R2 മാറ്റിസ്ഥാപിക്കാൻ കഴിയും അതു വഴി സെക്കണ്ടറി കറന്റ് കാരണം R2 ൽ കറന്റ് വഹിക്കുമ്പോൾ ആഗിരണം ചെയ്യപ്പെടുന്ന പവർ R2 ൽ ഉള്ളതിന് തുല്യമായിരിക്കും ഉദാഹരണത്തിന് ഈ സർക്യൂട്ട് നോക്കാം എനിക്ക് ഈ വശമാണ് കൊണ്ട് വരേണ്ടതായിട്ടുള്ളത് ഇവിടുത്തെ പവറിന്റെ തോത് I22 R2 എന്നതാണ് ഇനി ഇക്വലന്റ് റസിസ്റ്റൻസിനു സമാനമായി ഇവിടെ പ്രൈമറി വശത്ത് ഒരു റെസിസ്റ്റൻസുണ്ടെന്നും അതിന്റെ മൂല്യം R2 ആണെന്നും കരുതുക അതിനാൽ ഈ വശത്തെ ലോസ് R2 I2 2 ആയിരിക്കും അതിനാൽ ഇവുടത്തെ ഈ ലോസും ഇവിടുത്തെ I22 R2 ലോസും അവ രണ്ടും തുല്യമായിരിക്കണം ഇക്വലന്റ് R2 ന്റെ മൂല്യം എനിക്ക് ലഭിക്കും ഇതിൽ E1 E2 അനുപാതം അതേ പോലെ തുടരും നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം ഒരു റെസിസ്റ്റൻസ് ചേർക്കണം എന്നതാണ് നമുക്ക് ഇക്വലന്റ് R2 കണ്ടെത്തണം എന്നാൽ ഇവുടത്തെ ലോസ് R2 I2 2 I2 2 R2 എന്നതാവണം അതിനെ അടിസ്ഥാനമാക്കി മാത്രമേ നമ്മൾ മാറ്റുകയൊള്ളു ഇനി ഈ കേസിൽ I22 R2 I2 2 R2 ആണ് അതായത് R2 I22 I22 R2 അതിനാൽ R2 I2 I22 R2 ഇനി ഇവിടെ I2 I2 N1 N2 ആണ് കാരണം ഈ ഡയഗ്രത്തിൽ ഈ ടേൺസ് N1 ഉം ഇത് N2 ഉം ആണ് ഇവിടുത്തെ കറണ്ട് I2 ആണ് അതിനാൽ ഇതിനെ I2 N1 അതായത് പ്രൈമറി വശത്തിന്റെ എംഎംഎഫ് സെക്കണ്ടറി വശത്തിന്റെ എംഎംഎഫ് അതായത് N2 I2 അപ്പോൾ ഇത് I2 വും ഇത് N2 വുമാണ് അതിനാൽ N2 I2 I2 N1 എന്നതാണ് അതിനർത്ഥം I2 I2 N2 N1 അല്ലെങ്കിൽ I2 I2 N1 N2 എന്നാവും അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി ഇവിടെ ഈ I2 I2 N1 N2 എന്നത് പകരം ചേർക്കുകയാണെങ്കിൽ R2 N1 N2 2 R2 എന്നാവും പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ട്രാൻസ് റേഷിയോ K N1 N2 എന്നത് കണ്ടിരുന്നു അതിനാൽ R2 K 2 R2 എന്നാണ് ഇതേ രീതിയിൽ റിയാക്റ്റൻസും ഇതിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക X2 K 2 X2 എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ R2 K2 R2 ഉം X2 K 2 X2 എന്നുമായിരിക്കും അതിനാൽ ഈ സെക്കണ്ടറി വശത്തു നിന്ന് റെസിസ്റ്റൻസും റിയാക്റ്റൻസും പ്രൈമറി വശത്തേക്ക് മാറ്റിയിരിക്കുന്നു പക്ഷെ ഇത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണ് ഈ ലോഡ് RL ഉം XL ഉം അത് പോലെ ഈ V2 വും അവിടെ തന്നെ ഉണ്ടാവും ഇനി ഇവിടെ ഇതെല്ലം പ്രൈമറി വശത്തേക്ക് മാറ്റിയത് കാരണം ഇവിടെ സെക്കണ്ടറി വശത്ത് എന്താണ് സംഭവിക്കുക എന്നാൽ ഇവിടെ V2 E2 ആവും കാരണം V2 എന്നത് RL നും XL നും ഇടയ്ക്കുള്ള വോൾട്ടേജാണ് V2 പ്രൈമറി വശത്തേക്ക് മാറ്റിയാൽ ഇക്വലന്റ് വോൾട്ടേജ് ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ K V2 പ്രൈമറി വശത്തേക്ക് വരും ഇതേ രീതിയിൽ RL ഉം XL ഉം പ്രൈമറി വശത്തേക്ക് കൊണ്ട് വരാം RL എന്നത് RL എന്നും XL എന്നത് XL എന്നുമാകും അതിനാൽ E1 E2 N1 N2 അത് പോലെ E2 V2 എന്നാണ് അതിനാൽ E1 V2 K അപ്പോൾ E1 K V2 എന്നായിരിക്കും അതിനർത്ഥം ഈ വശത്തെ വോൾട്ടേജിലെ മാറ്റം K V2 എന്നായിരിക്കും കാരണം ഇത് ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണ് ഇതിന്റെ ടേൺസ് റേഷ്യോ N1 ഉം ഇത് N2 ഉം ആണ് അതിനാൽ E1 E2 N1 N2 പക്ഷെ E2 V2 ആണ് കാരണം ഇത് ഈ വശത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം R1 V2 K എന്നും N1 N2 K എന്നുമാണ് അതിനാൽ E1 K V2 എന്നാണ് ഇനി ഈ RL ഉം XL ഉം ഈ വശത്തേക്ക് മാറ്റിയാൽ ഇത് RL K 2 എന്നാവും അത് പോലെ ഇത് XL K 2 എന്നാവും അതായത് ഇത് RL ഉം ഇത് XL ഉം ആണ് അപ്പോൾ ഈ കേസിൽ RL K2 RL എന്നും XL K2 XL എന്നുമായിരിക്കും മാത്രമല്ല ഈ E1 നെ K V2 എന്നത് കൊണ്ട് സൂചിപ്പിക്കാം ഇതാണ് E1 ഇതിനെ ലോഡിലുള്ള K V2 വോൾട്ടേജായി അവതരിപ്പിക്കാം അപ്പോൾ ഇത് ട്രാൻസ്ഫോർമറിന്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് നമ്മൾ എന്താണ് ചെയ്തതെന്നാൽ നമ്മൾ എല്ലാ സെക്കണ്ടറി പാരാമീറ്ററുകളും പ്രൈമറി വശത്തേക്ക് മാറ്റി ഇത് V1 ആണ് ഇതെല്ലാം പ്രൈമറി വശത്തെ പാരാമീറ്ററുകളാണ് ഇതും പ്രൈമറി വശത്തെ പാരാമീറ്ററുകളാണ് ഇനി സെക്കണ്ടറി വശത്ത് K2 R2 ഉം K2 X2 ഉം എല്ലാമുണ്ട് ഇവിടെ എല്ലാ പരാമീറ്ററുകളും അതായത് റെസിസ്റ്റൻസും റിയാക്റ്റൻസുമെല്ലാം K2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് പോലെ ഇത് K V2 ആണ് അതിനാൽ ന്യൂമെറിക്കൽ വീക്ഷണകോണിൽ നിന്ന് ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടെ ചോദ്യമെന്തെന്നാൽ ഈ I0 കറണ്ട് ഫുൾ ലോഡ് കറണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് പൊതുവേ 3 മുതൽ 5 വരെ അപ്പോൾ ഇത് പോലെയുള്ള സീരീസ് പാരലൽ സർക്യൂട്ടുകൾ ഉണ്ടാക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവില്ല കാരണം ഇതിന്റെ സംഖ്യകൾ കണക്ക് കൂട്ടി സോൾവ് ചെയ്യുന്നതിന് സമയമെടുക്കും അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുകയെന്നാൽ നമ്മൾ ഈ ഒരു ബ്രാഞ്ചിനെ അതിന്റെ കൃത്യത നഷ്ടപ്പെടാത്ത രീതിയിൽ ഇവിടെയെവിടെങ്കിലും മാറ്റി സ്ഥാപിക്കും ഇവിടെ നിന്ന് ഈ ബ്രാഞ്ച് ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ ഇതായിരിക്കും I0 അതിനാൽ എളുപ്പത്തിലുള്ള കണക്കുകൂട്ടലിനായി ഇതിൽ പിശക് വളരെ കുറവായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫുൾ ലോഡ് കറണ്ടിന്റെ 3 5 വരെ ഉള്ള I0 യുടെ സർക്യൂട്ട് ഇത് പോലെയായിരിക്കും അപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ഇതായിരിക്കും I1 I0 ഇതിലൂടെ പോകുന്നുണ്ട് അതിനാൽ I1 I0 I2 ആയിരിക്കും ഇതാണ് മൊത്തം റെസിസ്റ്റൻസായ R1 K2 R2 നമ്മൾ ലോഡ് പരിഗണിക്കുന്നില്ല അതിനെ നമ്മൾ വേർതിരിച്ച് വെക്കുകയാണ് X1 K2 X2 ആണ് പ്രൈമറി സെക്കണ്ടറി ഇക്വലന്റ് റസിസ്റ്റൻസ് അതിനാൽ Re1 R1 K2 R2 എന്നും Xe1 X1 K2 X2 എന്നുമായിരിക്കും അപ്പോൾ ഇതായിരിക്കും ഒരു ഏകദേശ ഇക്വലന്റ് സർക്യൂട്ട് ഈ വശത്ത് വോൾട്ടേജ് V2 K V2 ആയിരിക്കും കൂടാതെ ഇതാണ് സപ്ലൈ വോൾട്ടേജ് ഇത് പ്രൈമറിയിലുള്ള ഏകദേശ ഇക്വലന്റ് സർക്യൂട്ടാണ് R e1 എന്നത് ഇതാണ് Xe1 ഇതാണ് ഈ മൂല്യങ്ങൾ പ്രൈമറി വശത്തിനെ സംബന്ധിച്ച സർക്യൂട്ട് പാരാമീറ്ററുകളാണ് കാരണം നമ്മൾ എല്ലാത്തിനെയും പ്രൈമറി വശത്തേക്ക് കൊണ്ട് വന്നിരുന്നു അതേ പോലെ RL1 K2 RL ഉം XL1 K 2 XL എന്നിവ പ്രൈമറി വശത്തിനെ സംബന്ധിച്ച ലോഡ് പാരാമീറ്ററുകളാണ് ഇനി പ്രൈമറി പാരാമീറ്ററുകളെ സെക്കണ്ടറി വശത്തേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും R2 R1 K2 X2 X1 K2 എന്നാവും സമാനമായി RL K2 XL K2 എന്നാവും അതേ പോലെ വോൾട്ടേജിലും മാറ്റങ്ങൾ ഉണ്ടാവും അത് K യുടെ ഗുണനത്തിന് പകരം R ഹരിക്കണം എന്നാവും ഞാൻ ഇത് സോൾവ് ചെയ്യാം ഒരു ലളിതമായ ഉദാഹരണം എടുക്കാം ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിന് പ്രൈമറി വശത്ത് 2000 ടേണുകളും സെക്കണ്ടറി വശത്ത് 800 ടേണുകളും ഉണ്ട് അതിന്റെ നോ ലോഡ് കറണ്ട് 0 2 ലാഗിംഗ് പവർ ഫാക്ടറിൽ 5 ആംപിയറാണ് കാരണം ഒരു നോ ലോഡ് പവർ ഫാക്ടർ വളരെ കുറവായിരിക്കും വൈൻഡിങ്ങിലെ വോൾട്ട് ഡ്രോപ്പ് നിസ്സാരമാണെന്ന് അനുമാനിച്ച് കൊണ്ട് സെക്കണ്ടറി കറണ്ട് 0 85 ലാഗിംഗ് പവർ ഫാക്ടറിൽ 100 ആംപിയറാവുമ്പോൾ പ്രൈമറി കറണ്ടും പവർ ഫാക്ടറും നിർണ്ണയിക്കുക അപ്പോൾ ഇതാണ് പ്രോബ്ലം നമുക്കറിയാം I2 N1 I2 N2 ഇതിന്റെ സൂത്രവാക്യങ്ങളെല്ലാം നമുക്കറിയാം 85 ലാഗിംഗ് പവർ ഫാക്ടറിൽ 100 ആംപിയറാണ് അതിനാൽ I2 N2 I2 എല്ലാ ഡാറ്റയും നൽകിയിട്ടുണ്ട് അതിനാൽ I2 0 85 ലാഗിംഗിൽ 40 ആംപിയറാണ് ഇനി സെക്കണ്ടറി വശത്ത് പവർ ഫാക്ടർ 0 ഈ സെക്കണ്ടറി പവർ ഫാക്ടർ ഈ പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട് അതായത് സെക്കണ്ടറി കറണ്ട് 0 85 ലാഗിംഗ് പവർ ഫാക്ടറിൽ 100 ആംപിയറാണ് എന്നത് ഇനി I0 5 ആംപിയറാണെന്ന് നൽകിയിട്ടുണ്ട് അതേ പോലെ cos ∅0 0 2 ആണെന്നും നൽകിയിട്ടുണ്ട് അപ്പോൾ ∅0 78 5° ആണ് ഇനി ഫേസർ ഡയഗ്രം വരക്കുകയാണെങ്കിൽ ഇതിൽ ∅ റഫറൻസും ഇത് V1 ഉം ആണ് ഇത് I1 ആണ് I1 I0 I2 എന്നതാണ് ഇത് I2 ആണ് I2 വും I2 ഉം ആൻറി ഫേസിലാണ് അത് കൊണ്ടാണ് ഇത് I2 വും ഇത് I2ഉം ആവുന്നത് ഇത് I1 I0 ഈ കാണുന്നതുമാണ് കൂടാതെ ∅0 എന്ന ആംഗിൾ തന്നിരിക്കുന്നത് 78 5° ആണ് അതിനർത്ഥം I1 cos ∅1 എന്നത് ഇതാണ് I1 ഇതാണ് cos ∅1 അതായത് ഈ OA എന്നത് യഥാർത്ഥത്തിൽ OB BA ആണ് ഇത് ഞാൻ എഴുതുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് മനസിലാക്കാൻ കഴിയുന്നതാണ് സമാനമായി ഈ സൈഡ് നോക്കുകയാണെങ്കിൽ I1 sin∅1 OD ആണ് അത് OC CD ആണ് അപ്പോൾ എല്ലാ ആംഗിളുകൾ രേഖപ്പെടുത്തുകയും എല്ലാ കറണ്ടുകളും കണക്ക് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ I1 cos ∅1 I2 cos31

അതിന്റെ ഉത്തരം എന്ത് തന്നെയാവട്ടെ അപ്പോൾ I1 cos ∅1 എന്നത് 35 ആയിരിക്കും ഈ AB എന്നത് ഈ കാണുന്ന ഭാഗമാണ് ഇത് നിങ്ങൾ സ്വയം ചെയ്യാൻ നോക്കുക ഇത് വളരെ എളുപ്പമാണ് ഞാനിതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാനമായി I1 sin ∅1 I0 sin ∅0 I2 sin 31 അപ്പോൾ നമുക്ക് ലഭിക്കുക I1sin ∅1 25 98 എന്നാണ് ഇനി ഈ I1 cos ∅1 ഉം I1 sin ∅1 ഉം സ്ക്വയർ ചെയ്ത് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക I1 43 6 ആംപിയർ എന്നാണ് കാരണം sin 2 ∅ 1 cos2 ∅ 1 1 ആണ് ഒപ്പം ഈ I1 cos ∅1 ഉം I1 sin ∅1 ഉം പരസ്പരം ഹരിക്കുകയാണെങ്കിൽ അതായത് I1 sin ∅1 I1 cos ∅1 എന്നതിന്റെ ഫലം tan ∅1 ൻറെ കൂടെ എന്തെങ്കിലുമായിരിക്കും അതിൽ നിന്ന് ∅1 36 6° എന്ന് ലഭിക്കും അതിനാൽ cos∅1 0 8 ആണ് അപ്പോൾ ഇതാണ് ഉത്തരം ഇനി വേറെയൊന്ന് നോക്കാം ഒരു ട്രാൻസ്ഫോർമറിൽ 2200 220 വോൾട്ടും അതായത് പ്രൈമറി വശത്ത് ഇതും സെക്കണ്ടറി വശത്ത് ഇതും കൂടാതെ ഒരു സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമറുമാണ് അത് സിംഗിൾ ഫേസും 50 Hz ഫ്രീക്വൻസി ഉള്ളതുമാണ് ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ അതിന്റെ റെസിസ്റ്റൻസ് 1 25 Ω ഉം റിയാക്റ്റൻസ് 4 Ω ഉം ആണ് ലോ വോൾട്ടേജ് വൈൻഡിങ്ങിൽ റെസിസ്റ്റൻസ് 0 04 Ω ഉം റിയാക്റ്റൻസ് 0 ഇതിന്റെ പ്രൈമറി വശത്ത് ഇത്രയാണെന്നും സെക്കണ്ടറി വശത്ത് ഇത്രയാണെന്നും നൽകിയിട്ടുണ്ട് അപ്പോൾ ഹൈ വോൾട്ടേജ് വശത്തിന്റെ അടിസ്ഥാനത്തിൽ ലോ വോൾട്ടേജ് വശത്തിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസും റിയാക്റ്റൻസും നിർണ്ണയിക്കുക ലോ വോൾട്ടേജ് വശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈ വോൾട്ടേജ് വശത്തിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസും റിയാക്റ്റൻസും നിർണ്ണയിക്കുക അപ്പോൾ R1 തന്നിട്ടുണ്ട് R2 തന്നിട്ടുണ്ട് X1 തന്നിട്ടുണ്ട് X2 തന്നിട്ടുണ്ട് R1 X1 പ്രൈമറി വശത്തിനും R2 X2 സെക്കണ്ടറി വശത്തിനുമാണ് K യും ഇവിടെ തന്നിട്ടുണ്ട് N1 N2 V1 V2 10 ആണ് അതിനാൽ പ്രൈമറി വശത്തുള്ള R2 K 2 R2 4 Ω ആയിരിക്കും അത് പോലെ X2 K 2 X2 അപ്പോൾ 10 2 0 15 15 Ω ആണ് അതിനാൽ ഹൈ വോൾട്ടേജ് വശത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് പ്രൈമറി വൈൻഡിങ് ഇവിടെ പ്രൈമറി വശമാണ് ഹൈ വോൾട്ടേജ് വശം അപ്പോൾ ഇത് R e1 R1 R2 എന്നായിരിക്കും ഇത് കൂട്ടിയാൽ നമുക്ക് 5 52 Ω എന്ന് ലഭിക്കും സമാനമായി X e1 X1 X2 അത് കൂട്ടിയാൽ ലഭിക്കുക 19 Ω ഇനി സെക്കണ്ടറി വശമാണ് ഇവിടെ R1 X1 ആണ് സെക്കണ്ടറി വശത്തേക്ക് മാറിയത് R2 X2 അല്ല R2 X2 സെക്കണ്ടറി വശത്ത് തന്നെ തുടരും പ്രൈമറി വശമാണ് സെക്കണ്ടറി വശത്തേക്ക് മാറുന്നത് ഹൈ വോൾട്ടേജ് വശമാണ് ലോ വോൾട്ടേജ് വശത്തേക്ക് മാറുന്നത് അതിനാൽ ഹൈ വോൾട്ടേജ് വശത്തെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും K2 കൊണ്ട് ഹരിക്കണം അത് കൊണ്ടാണ് ഇവിടെ R1 K 2 അപ്പോൾ അത് 1 25 10 2 0 അത് പോലെ X1 X1 K 2 0 അതിനാൽ ലോ വോൾട്ടേജ് വശത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് സെക്കണ്ടറി വശത്ത് R e2 R2 R1 അത് കൂട്ടിയാൽ ലഭിക്കുന്നത് 0 0525 Ω ആണ് അത് പോലെ X e2 കൂട്ടിയാൽ ലഭിക്കുക 0 പക്ഷെ ഒരു കാര്യം ഇവിടെ ഇത് 5 25 Ω ഇത് 19 Ω ആയിരുന്നു പക്ഷെ സെക്കണ്ടറി വശത്ത് ഇത് 0 അപ്പോൾ ഇതിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഇത് 5 25 Ω ആവും അത് പോലെ ഇതിനെയും 100 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 19 Ω ആവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കിത് കണക്ക് ശരിയാണോ അല്ലയോ എന്ന് പരിശോദിക്കാവുന്നതാണ് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് നന്ദി